എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഊർജ്ജ സംരക്ഷണവും ഉപയോഗ ശൂന്യമായ ചൂടിൽ നിന്ന് അധികമായി ഊർജ്ജം കണ്ടെടുക്കുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം ഉപയോഗ ശൂന്യമായ ചൂട് വീണ്ടെടുക്കുന്നതിനുള്ള ഒരു റൺ എറൌണ്ട് കോയിൽ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇതിനെ ഫ്രീഡ് കപ്പിൾഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നും വിളിക്കുന്നു നമ്മൾ കുറച്ച് വിശകലനം നടത്തുകയായിരുന്നു റൺ എറൌണ്ട് കോയിലിലെ താപ കൈമാറ്റത്തിന്റെ നിരക്ക് എത്രയാണെന്ന് നിർണ്ണയിക്കുന്നതിനുള്ള ലളിതമായ വിശകലനം ഇപ്പോൾ നമ്മൾ ഈ സ്ലൈഡിലേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണ് അതിനാൽ ഇവിടെ നമ്മൾ ഒരു വലിയ അനുമാനത്തിലെത്തി ഇത് യഥാർത്ഥ കാര്യത്തിൽ ശരിയായിരിക്കില്ല അതായത് 𝑚̇Ch അതാണ് ചൂടുള്ള ദ്രാവകത്തിന്റെ താപശേഷി നിരക്ക് അത് 𝑚̇Cc ക്ക് തുല്യമാണ് തണുത്ത ദ്രാവകത്തിന്റെ താപശേഷി നിരക്ക് 𝑚̇Cs ന് തുല്യമാണ് ഇത് ദ്വിതീയ ദ്രാവകത്തിന്റെ താപശേഷി നിരക്കാണ് ഇത് ഹോട്ട് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിനെയും കോൾഡ് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ ഹോട്ട് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറും കോൾഡ് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറുമാണ് ഈ 2 ഹീറ്റ് എക്സ്ചേഞ്ചറുകൾക്ക് ഒരു സാധാരണ ദ്രാവകം ഉണ്ട് ഇത് ഒരു പമ്പിന്റെ സഹായത്തോടെ ഒരു ലൂപ്പിലൂടെ കടന്നുപോകുന്നു അതിനാൽ മൂന്ന് ദ്രാവക പ്രവാഹങ്ങളുടെ താപശേഷി നിരക്കിൽ ഈ 2 ദ്രാവകങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്നത്എന്താണ് ഇപ്പോൾ നമ്മൾ കൌണ്ടർ കറന്റ് ഫ്ലോ ക്രമീകരണം പരിഗണിക്കുക ഹോട്ട് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് നമുക്ക് എക്സ്ചേഞ്ചറിന്റെ നീളത്തിൽ ഇത്തരത്തിലുള്ള താപനില മാറ്റം ലഭിക്കും കോൾഡ് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് നമുക്ക് എക്സ്ചേഞ്ചറിന്റെ നീളത്തിൽ ഈ തരത്തിലുള്ള താപനില മാറ്റം ലഭിക്കും ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ദൈർഘ്യത്തിലുടനീളം താപനില മാറ്റങ്ങൾ രേഖീയമാണ് കൂടാതെ നീളം മുഴുവൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളിലെ താപനില വ്യത്യാസം സ്ഥിരമാണ് കാരണം 2 ദ്രാവകങ്ങൾ തമ്മിലുള്ള താപനില വ്യത്യാസം അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ മൊത്തം നീളത്തിൽ ഒഴുകുന്ന ദ്രാവക പ്രവാഹങ്ങൾ തമ്മിലുള്ള താപനില വ്യത്യാസം സ്ഥിരമായതു കൊണ്ടുമാകാം അത് അതിനാൽ ഇത്തരത്തിലുള്ള താപനില വ്യത്യാസം ഉണ്ടെങ്കിൽ LMTD അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശരാശരി താപനില വ്യത്യാസം കണക്കാക്കേണ്ടതില്ലെന്ന് ഇതിനാൽ നമുക്കറിയാം കാരണം എല്ലായിടത്തും പ്രാദേശിക താപനില വ്യത്യാസം ഒന്നുതന്നെയാണ് കൂടാതെ Th1 Ts1 നെ ∆T എന്ന് വിളിക്കുന്നു അതിനാൽ ∆T ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ മുഴുവൻ നീളത്തിലും ആണ് അത് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഒരു അറ്റത്ത് നിന്ന് ആരംഭിച്ച് മറ്റേ അറ്റം വരെ ഉണ്ടായിരിക്കും അതിനാൽ മൂന്ന് താപനില രേഖകളും നേർരേഖകളും സമാന്തരവുമാണ് LMTD അല്ലെങ്കിൽ ശരാശരി താപനില വ്യത്യാസം എന്ന് വിളിക്കാവുന്ന ∆TLm ∆Ti ക്ക് തുല്യമാണ് അത് ഇൻലെറ്റിലെ 2 ദ്രാവകങ്ങൾ തമ്മിലുള്ള താപനില വ്യത്യാസമാണ് അത് ∆Te ക്ക് തുല്യമാണ് അത് എക്സിറ്റിൽ 2 ദ്രാവകങ്ങൾ തമ്മിലുള്ള താപനില വ്യത്യാസമാണ് നമ്മൾ ഹോട്ട് സൈഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ പരിഗണിക്കുകയാണെങ്കിൽ h c ഇത് നമ്മൾ എടുത്ത അനുമാനത്തിൽ നിന്നാണ് വരുന്നത് 𝑚̇Ch എന്നത് 𝑚̇Cc ക്ക് തുല്യമാണെന്നും അത് 𝑚̇Cs നും തുല്യമാണെന്നും അതുപോലെ UA യുടെ ഗുണനഫലം രണ്ടു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെയും ചൂടുള്ള വശം അല്ലെങ്കിൽ തണുത്ത വശം അത് എപ്പോഴും തുല്യമാണ് അതിനെ ഹോട്ട് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ Qതാപനില വ്യത്യാസം ∆T എന്നോ കോൾഡ് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ Q∆T എന്നോ പറയാം അതിനാൽ വീണ്ടും നമുക്ക് തിരികെ പോകാം ഇന്റർമീഡിയറ്റ് ഫ്ലൂയിഡ് സ്ട്രീം അല്ലെങ്കിൽ സെക്കൻഡറി ഫ്ലൂയിഡ് സ്ട്രീമിന് എന്താണ് സംഭവിക്കുന്നത് അത് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ വിശകലനത്തിന് പ്രധാനമാണ് അത് പരിഗണിക്കാതെ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല എന്നാൽ അവസാനം ദ്വിതീയ ദ്രാവക പ്രവാഹത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ത് താപനില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓർത്തു നമ്മൾ വിഷമിക്കുന്നില്ല എത്രമാത്രം ചൂട് കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ചൂടുള്ള ദ്രാവക പ്രവാഹത്തിന്റെ ഔട്ട്ലറ്റ് താപനില എന്താണ് തണുത്ത ദ്രാവക പ്രവാഹത്തിന്റെ ഔട്ട്ലറ്റ് താപനില എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിതരാണ് മിക്ക ആപ്ലിക്കേഷനുകളിലും ചൂടുള്ള ദ്രാവക പ്രവാഹത്തിന്റെ ഇൻലെറ്റ് താപനിലയും തണുത്ത ദ്രാവക പ്രവാഹത്തിന്റെ ഇൻലെറ്റ് താപനിലയും ഇവ രണ്ടും അറിയാവുന്ന അളവുകളായിരിക്കും UA പോലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ സവിശേഷതകളും താപശേഷി നിരക്കും അതുപോലെ തന്നെ അറിയപ്പെടുന്ന അളവുകളും അറിയപ്പെടുന്ന പാരാമീറ്ററുകളും ആണ് അതിനാൽ താപ കൈമാറ്റ നിരക്ക് കണക്കുകൂട്ടുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ ചൂടുള്ള സൈഡിന്റെ ഇൻലെറ്റ് താപനില അറിയാവുന്നതാണ് അതുപോലെ തണുത്ത സൈഡിന്റെ ഇൻലെറ്റ് താപനിലയും നമുക്ക് അറിയാം നമുക്ക് ചൂടുള്ള സൈഡിന്റെ ഔട്ട്ലെറ്റ് താപനില Th2 ഉം തണുത്ത സൈഡിന്റെ ഔട്ട്ലെറ്റ് താപനില Tc1 ഉം ആയി കണക്കാക്കാം അതിനാൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 അറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം Th1 Ts1 എന്നാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾക്ക് താൽപ്പര്യമുള്ളത് ഈ വ്യത്യാസത്തിൽ ആണ് Th1 Ts1 അല്ലെങ്കിൽ Ts1 Tc1 കൂടാതെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ധാരാളം ലളിതമായ അനുമാനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനാൽ Ts1 Th1 നും Tc1 നും ഇടയിലായിരിക്കും അതിനാൽ ഒരാൾക്ക് Th1 Ts1Ts1 Tc1 എന്ന് പറയാൻ കഴിയും അതുപോലെ Th2 Ts2Ts2 Tc2 എന്നും അതാണ് Ts1Th1Tc12 എന്നും Ts22 എന്നും നമ്മൾ എഴുതിയിരിക്കുന്നത് അതിനാൽ മൊത്തം ചൂട് വീണ്ടെടുക്കൽ 𝑄̇ ആണ് ഇത് h ന് തുല്യമാണ് അത് Th1 Tc12 ആണ് ഇത് ചൂടുള്ള ദ്രാവകത്തിന്റെ പ്രവേശന താപനിലയാണെന്ന് ഓർമ്മിക്കുക എന്നാൽ ഇത് തണുത്ത ദ്രാവകത്തിന്റെ ഔട്ട്ലെറ്റ് താപനിലയാണ് മിക്ക കേസുകളിലും തണുത്ത ദ്രാവകത്തിന്റെ ഔട്ട്ലെറ്റ് താപനില നമ്മൾക്ക് അറിയില്ല ഇതിനെ 2 കൊണ്ട് ഹരിക്കുന്നു കാരണം ചൂട് ഹീറ്റ് എക്സ്ചേഞ്ചറിലെ ∆T ഈ അളവിന്റെ പകുതിയായിരിക്കും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇവ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഒരു അറ്റത്തുള്ളതാണ് അതുപോലെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റേതുമാണ് അതുപോലെ തണുത്ത ദ്രാവക പ്രവാഹത്തിനും ഈ ഊർജ്ജ ബാലൻസ് സമവാക്യം നമുക്ക് എഴുതാം അതിനാൽ ഇപ്പോൾ Tc1 ഈ പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു Tc2 നെ ഇതിലേക്ക് കൊണ്ടുവരുന്നു ഒരുതരം ബീജഗണിത കൃത്രിമത്വം ചെയ്ത് 𝑄̇ ഈ അളവിന് തുല്യമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാകും ഹോട്ട് എൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിനായുള്ള മൊത്തത്തിലുള്ള താപ കൈമാറ്റ ഗുണകത്തിന്റെയും താപ കൈമാറ്റ പ്രതലത്തിന്റെയും ഉൽപന്നമാണ് UAh ഇത് അറിയപ്പെടുന്നതാണ് Th1 Tc2 ചൂടുള്ള ദ്രാവകത്തിന്റെ പ്രവേശന താപനില തണുത്ത ദ്രാവകത്തിന്റെ പ്രവേശന താപനില മിക്ക പ്രായോഗിക പ്രയോഗങ്ങളിലും ഇത് അറിയപ്പെടുന്നതാണ് വീണ്ടും പറയുന്നു UAh അറിയപ്പെടുന്ന അളവാണ് 𝑚̇Cഎന്നതിനർത്ഥം തണുത്ത വശത്തിന്റെ താപ ശേഷി നിരക്ക് അത് അറിയപ്പെടുന്ന അളവാണ് അതിനാൽ ഇതുവഴി നമുക്ക് താപ കൈമാറ്റ നിരക്ക് കണ്ടെത്താൻ കഴിയും വ്യക്തമായും വിശകലനം വളരെ ലളിതമാണ് ഈ വിശകലനത്തിനായി നമ്മൾ ചില കടുത്ത അനുമാനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾക്ക് കുറച്ച് നല്ല വിവരങ്ങൾ കിട്ടി ആദ്യ കാര്യം എന്താണെന്നാൽ അത് 2 ഇൻലെറ്റ് താപനിലയെ ആശ്രയിച്ചിരിക്കും അതായത് താപ കൈമാറ്റ നിരക്ക് ചൂടുള്ള ദ്രാവകത്തിന്റെ പ്രവേശന താപനില തണുത്ത ദ്രാവകത്തിന്റെ പ്രവേശന താപനില എന്നിവയെ ആശ്രയിച്ചിരിക്കും ഇത് h അല്ലെങ്കിൽ c യുടെ ഉൽപന്നത്തെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഇത് ഇതോടൊപ്പം വർദ്ധിക്കും പക്ഷേ h അതിന് ഒരു വിധത്തിൽ പരസ്പരവിരുദ്ധമായ പ്രഭാവം ഉണ്ട് അത് വർദ്ധിക്കുകയും ഒരു വിധത്തിൽ താപ കൈമാറ്റത്തിന്റെ നിരക്ക് കുറയുകയും ചെയ്യുന്നു ഈ 2 ഇഫക്റ്റുകൾ ഉണ്ട് കൂടാതെ വ്യക്തമായും 𝑚̇C ഇത് താപ കൈമാറ്റ നിരക്ക് വർദ്ധിപ്പിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ താപ കൈമാറ്റ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രവണത ഇതിന് ലഭിച്ചു അതിനാൽ ഏത് പാരാമീറ്റർ താപ കൈമാറ്റ നിരക്കിനെ സ്വാധീനിച്ചുവെന്ന് ഇത് നമ്മൾക്ക് കുറച്ച് ആശയം നൽകുന്നു ഈ വിശകലനം കൂടുതൽ യാഥാർത്ഥ്യമാക്കാം പക്ഷേ അത് ചിലപ്പോൾ വിശകലനം സങ്കീർണ്ണമാക്കും അതിനാൽ ഞാൻ അത് ഒഴിവാക്കുന്നു റൺ എറൌണ്ട് കോയിലിന്റെ പ്രയോഗം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എയർ കണ്ടീഷനിംഗ് ആപ്ലിക്കേഷനായി റൺ എറൌണ്ട് കോയിലുകൾ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു നമ്മൾ തുടക്കത്തിൽ കണ്ട ചിത്രത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇത് ഒരു മുറിയിൽ നിന്ന് പുറപ്പെടുന്ന വായുവായിരിക്കാം നമുക്ക് ഇങ്ങനെ പറയാം ഒരു തണുത്ത രാജ്യത്ത് ശൈത്യകാലത്ത് അവിടെ മുറി ചൂടാക്കേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ ഒരു പ്രായോഗിക അവസരം നമ്മൾക്ക് ലഭിച്ചു എന്നാൽ മുറിയിലെ വായു അതിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടണം റൂം എയർ വരുമ്പോൾ അതിന് ഒരു നിശ്ചിത താപോർജ്ജമുണ്ട് അത് ഒരു ദ്രാവക പ്രവാഹത്തിലൂടെ വേർതിരിച്ചെടുക്കാൻ കഴിയും പുറത്തുനിന്നും നമ്മൾക്ക് ശുദ്ധമായ തണുത്ത വായു എടുക്കണം എന്നിട്ട് അത് ചൂടാക്കണം എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക്കൽ ഹീറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബർണർ ഉപയോഗിച്ച് ചൂടാക്കുന്നതിന് മുമ്പ് ചൂടുള്ള എയർ എക്സ്ഹോസ്റ്റ് സ്ട്രീം നൽകുന്ന ചൂട് ഈ കോയിൽ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിച്ച് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ നമുക്ക് ഊർജ്ജം ലാഭിക്കാൻ കഴിയും അതിനാൽ റൺ എറൌണ്ട് കോയിലിന്റെ ഒരു ഉദാഹരണമാണിത് റൺ എറൌണ്ട് കോയിലിന്റെ പ്രധാന പ്രയോഗങ്ങളിലൊന്നാണിത് പക്ഷേ വലിയ വ്യവസായ സംവിധാനത്തിൽ മറ്റ് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകാം എന്നാൽ മിക്ക കേസുകളിലും ഗ്യാസിൽ നിന്ന് ഗ്യാസിലേക്കു അതായത് ചൂട് ഗ്യാസ് സ്ട്രീമിൽ നിന്ന് തണുത്ത ഗ്യാസ് സ്ട്രീമിലേക്ക് ചൂട് കൈമാറ്റം ചെയ്യുന്നതിനായി ഇത്തരത്തിലുള്ള റൺ എറൌണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നു ഇതിന് പരിമിതികളുമുണ്ട് സ്ട്രീം വളരെ അകലെയാണെങ്കിൽ തീർച്ചയായും നഷ്ടം ഉണ്ടാകും ഈ കോയിലിൽ നിന്നുള്ള നഷ്ടം നമ്മൾ അവഗണിച്ചു പക്ഷേ കുറച്ച് നഷ്ടം ഉണ്ടാകും അതിനേക്കാൾ പ്രധാനം കുറച്ച് പമ്പിംഗ് പവർ ഇതിന് ആവശ്യമാണ് അതിനാൽ ഈ പമ്പിംഗ് പവർ ചില അധികമായ ഇൻപുട്ട് ആണ് അത് താപോർജ്ജം പുറത്തെടുക്കുന്നതിന് നിങ്ങൾ നൽകേണ്ട പിഴ പോലെയാണ് പാഴായി പോകുന്ന ചൂട് വീണ്ടെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക ഹീറ്റ് എക്സ്ചേഞ്ചറുകളെക്കുറിച്ചുള്ള നമ്മളുടെ ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നു ഇപ്പോൾ ഒരു വിഷയത്തിലേക്ക് മാറാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അത് തികച്ചും അദ്വിതീയമാണ് അത് ഹീറ്റ് എക്സ്ചേഞ്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇത് ഒരു സാധാരണ ഹീറ്റ് എക്സ്ചേഞ്ചറുമായി ബന്ധപ്പെടുന്നില്ല ഇത് ഹീറ്റ് എക്സ്ചേഞ്ചറുകളുമായി ബന്ധപ്പെട്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്ലാന്റിലോ വ്യവസായത്തിലോ ധാരാളം ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഒരുമിച്ചുപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നിരവധി ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉപയോഗിച്ച് ചൂട് അല്ലെങ്കിൽ ഊർജ്ജം എങ്ങനെ സംയോജിപ്പിക്കാം എന്ന ആവശ്യം വരുമ്പോൾ അതിനാൽ പിഞ്ച് സാങ്കേതികത ഉപയോഗിച്ചുള്ള ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് വിശകലനത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പോകും ഇത് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉദാഹരണം ഉൾപ്പെടെ ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്ന മുഴുവൻ കാര്യവും ഈ റഫറൻസിൽ നിന്നാണ് എടുത്തത് ലിൻഹോഫും ഹിന്ദ്മാർഷും B Linnhoff E Hindmarsh ചേർന്ന് ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്കുകൾക്കുള്ള പിഞ്ച് ഡിസൈൻ രീതി 1983 ൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് സയൻസിൽ ഇത് പ്രസിദ്ധീകരിച്ചു അതിനാൽ ഞാൻ ആദ്യം പരിചയപ്പെടുത്തട്ടെ എന്താണ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് പ്രോസസ് പ്ലാന്റുകളോ കെമിക്കൽ പ്ലാന്റ് അല്ലെങ്കിൽ പെട്രോകെമിക്കൽ റിഫൈനറികളോ ഉണ്ട് അവിടെ ധാരാളം ദ്രാവകങ്ങൾ ഉണ്ട് ചിലത് ദ്രാവകമാകാം ചിലത് വാതകമാകാം ചിലത് അവയുടെ അവസ്ഥ മാറ്റിയേക്കാം ഈ ഓരോ ദ്രാവക പ്രവാഹത്തിനും ചൂടാക്കൽ അല്ലെങ്കിൽ തണുപ്പിക്കൽ ആവശ്യമാണ് അതായത് ഒരു പ്രത്യേക ഊഷ്മാവിൽ ഒരു പ്രത്യേക സ്ട്രീം ലഭ്യമാകും അതിനെ ഒരു സപ്ലൈ ടെമ്പറേച്ചർ എന്ന് വിളിക്കാം ഇനി ഈ സ്ട്രീമിനെ ഒരു നിശ്ചിത താപനിലയിലേക്ക് കൊണ്ടുവരണം ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടാർഗെറ്റ് താപനില കൈവരിക്കാൻ കഴിയും ഇത് എങ്ങനെ ചെയ്യാനാകും സാധാരണയായി ഒരാൾക്ക് ഈ ആവശ്യത്തിനായി യൂട്ടിലിറ്റികൾ ഉപയോഗിക്കാം ചൂടുള്ള വായു ചൂടുള്ള എണ്ണ നീരാവി എന്നിവ ഈ സ്ട്രീം ചൂടാക്കാൻ ഉപയോഗിക്കാം സാധാരണ താപനിലയിൽ വായു ആംബിയന്റ് എയർ തണുത്ത വെള്ളം റഫ്രിജറന്റ് പോലുള്ള യൂട്ടിലിറ്റികൾ ഈ സ്ട്രീം തണുപ്പിക്കാനോ കുറഞ്ഞ ടാർഗെറ്റ് താപനിലയിലേക്ക് കൊണ്ട് പോകാനോ ഉപയോഗിക്കാം ഇപ്പോൾ ഈ യൂട്ടിലിറ്റികൾ അർത്ഥമാക്കുന്നത് ഇവ അധിക ചിലവുകളാണ് തണുത്ത വെള്ളം ലഭിക്കാൻ എനിക്ക് ഒന്നുകിൽ ഒരു ദ്രാവക പ്രവാഹം തണുപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ഒരുതരം റഫ്രിജറന്റ് ഉപയോഗിക്കണം അതിന് ഒരു ശീതീകരണ പ്ലാന്റ് ആവശ്യമാണ് അതിനായി ഞാൻ അന്തരീക്ഷ വായു ഉപയോഗിച്ചാലും പ്ലാന്റ് ആവശ്യമാണ് അതിനാൽ യാതൊരു ചിലവും നൽകാതെ ഒരു പ്രയോജനവും ലഭിക്കില്ല വളരെ വ്യക്തമായി ഒരു നല്ല പ്ലാന്റ് ഡിസൈനിനായി എല്ലായ്പ്പോഴും കുറഞ്ഞ അളവിലുള്ള യൂട്ടിലിറ്റികൾ ഉപയോഗിക്കുന്നത് അഭികാമ്യമാണ് യൂട്ടിലിറ്റികളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് കാരണം യൂട്ടിലിറ്റികൾ എന്നാൽ പ്രവർത്തനച്ചെലവും യൂട്ടിലിറ്റികൾ മൂലധനച്ചെലവും എന്നാണ് കാരണം എനിക്ക് ധാരാളം തണുത്ത വെള്ളം ലഭിക്കണമെങ്കിൽ അതിനാൽ എനിക്ക് പ്രോസസ് പ്ലാന്റിനൊപ്പം എനിക്ക് ഒരുതരം ശീതീകരണ പ്ലാന്റും ഉണ്ടായിരിക്കണം അവിടെ നിന്ന് എനിക്ക് ശീതീകരിച്ച വെള്ളത്തിന്റെ വറ്റാത്ത വിതരണം ലഭിക്കും വ്യക്തമായും പ്ലാന്റിന്റെ വലുപ്പവും വർദ്ധിക്കും യൂട്ടിലിറ്റികളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തപ്പെടുന്നു ഇത് താപ സംയോജനത്തിലൂടെ ചെയ്യാൻ കഴിയും താപ സംയോജനം വളരെ സാധാരണമായ വിഷയമാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദം അതിനാൽ താപ സംയോജനം എന്നാൽ ഒരു പ്രത്യേക പ്ലാന്റിലെ താപോർജ്ജം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്നാണ് തണുപ്പിക്കൽ ആവശ്യമാണെങ്കിൽ തണുപ്പിക്കാനുള്ള യൂട്ടിലിറ്റി ഉപയോഗിക്കാതെ ഈ തണുപ്പിക്കൽ ആന്തരികമായി ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ നോക്കണം ചൂടാക്കൽ ആവശ്യമാണെങ്കിൽ ചൂടാക്കാനുള്ള യൂട്ടിലിറ്റിക്ക് കുറച്ച് പണം നൽകാതെ നമുക്ക് ആന്തരികമായി ചൂടാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ നോക്കണം അതിനാൽ ഇതിനെ താപ സംയോജനം എന്ന് വിളിക്കുന്നു താപ സംയോജനം ചൂടുള്ളതും തണുത്തതുമായ സ്ട്രീമുകൾ തമ്മിലുള്ള താപ കൈമാറ്റത്തെ സൂചിപ്പിക്കുന്നു ഇത് യൂട്ടിലിറ്റികളുടെ ഉപയോഗം കുറയ്ക്കുന്നു വ്യക്തമായും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു ചൂടുള്ള സ്ട്രീമിന്റെ വിതരണ താപനില വളരെ വലുതാണ് നമ്മൾ കുറഞ്ഞ ടാർഗെറ്റ് താപനിലയിലേക്ക് കൊണ്ട് വരേണ്ടതുണ്ട് കൂടാതെ സ്ട്രീം ചൂടാക്കപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള യൂട്ടിലിറ്റിയില്ലാതെ ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ആ സ്ട്രീം ആ ചൂടുള്ള സ്ട്രീമിന്റെ സഹായത്തോടെ ചൂടാക്കാം എന്നാൽ ഒരു സ്ട്രീമിന്റെ ചൂടാക്കലും മറ്റൊരു സ്ട്രീമിന്റെ തണുപ്പിക്കലും സ്വയമേവ ചെയ്യാൻ കഴിയില്ല അതിനായി നമുക്ക് ചില ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം ആ ഉപകരണത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾ ഈ ആന്തരിക ചൂടാക്കലും തണുപ്പിക്കലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ താപ സംയോജനം ഉണ്ടാകുമ്പോൾ നമുക്ക് നിരവധി ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഇത് ഹീറ്റ് എക്സ്ചേഞ്ചറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ഹീറ്റ് എക്സ്ചേഞ്ചർ സിന്തസിസ് എന്നാൽ ഒരു നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്യുക എന്നാണ് അതിനാൽ നമ്മൾ കുറഞ്ഞ അളവിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉപയോഗിക്കുകയും കുറഞ്ഞ അളവിലുള്ള യൂട്ടിലിറ്റികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഇതുപോലെയാണ് നമ്മൾ യൂട്ടിലിറ്റിയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ പ്ലാന്റിന്റെ പ്രവർത്തന ചെലവ് ഒരു പരിധിവരെ കുറയ്കാൻ കഴിയും പ്ലാന്റിന്റെ പ്രാരംഭ ചെലവ് നമ്മൾക്ക് കുറക്കാൻ കഴിയും കാരണം നമ്മൾക്ക് ഒരു ശീതീകരണ പ്ലാന്റും നൽകേണ്ടതില്ല അല്ലെങ്കിൽ ഒരു ബോയിലറുകളും നൽകേണ്ടതില്ല പക്ഷേ നമ്മൾ പ്രധാനമായും പറയുന്നത് പ്രവർത്തനച്ചെലവാണ് എന്നാൽ നമുക്ക് അത് താപ സംയോജനത്തിലൂടെ ചെയ്യണമെങ്കിൽ നമുക്ക് ധാരാളം ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉണ്ടായിരിക്കണം അതിനാൽ നമ്മൾ പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നു പക്ഷേ നമ്മൾക്ക് ഗണ്യമായ തുക പ്രാരംഭ ചെലവ് ഉണ്ടായി അതിനാൽ ഈ പ്രവർത്തനച്ചെലവും മൂലധനച്ചെലവും അല്ലെങ്കിൽ പ്രാരംഭ നിക്ഷേപച്ചെലവും തമ്മിൽ എന്തെങ്കിലും സന്തുലിതാവസ്ഥ ഉണ്ടാക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് ആത്യന്തികമായി ലാഭകരമായ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ കഴിയും അവിടെനിന്നാണ് ഏറ്റവും കുറഞ്ഞ ഉത്പാദന വിലയിൽ ഉത്പന്നം ലഭിക്കുന്നത് അതിനാൽ ഇതാണ് നമ്മളുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് വിശകലനം അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് സമന്വയത്തിന്റെ ലക്ഷ്യം താപ വിനിമയ ശൃംഖലയുടെ സമന്വയം ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്കിന്റെ ഹ്രസ്വ രൂപം H E N ആണ് HEN സിന്തസിസിന് വ്യത്യസ്ത സാങ്കേതിക വിദ്യകളുണ്ട് അതിൽ പിഞ്ച് ടെക്നിക് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു മറ്റ് പ്രോഗ്രാമിംഗ് ടെക്നിക്കുകളും ലഭ്യമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് വളരെ സങ്കീർണമായേക്കാം പ്ലാന്റ് ഡിസൈനിന്റെ തുടക്കത്തിൽ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കാം അത് താരതമ്യേന ലളിതമാണ് പക്ഷേ ചിലപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റിനും ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്കുകൾ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് അതിനാൽ അതിന് റെട്രോഫിറ്റിംഗ് ആവശ്യമാണ് അല്ലെങ്കിൽ തുടക്കത്തിൽ ചില ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് തുടർന്ന് പ്ലാന്റിന്റെ ശേഷി ഇടയ്ക്കിടെ ചില മാറ്റങ്ങളാൽ വർദ്ധിച്ചു അതുകൊണ്ട് നമ്മൾക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് മാറ്റേണ്ടതുണ്ട് അതിനാൽ ഇവ സങ്കീർണ്ണമായ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ലഭ്യമായ എല്ലാ രീതികളിലൂടെയും അല്ലാത്ത ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്ക് വിശകലനത്തിന്റെ ലളിതമായ ഒരു തത്വം കാണാൻ നമ്മൾ ശ്രമിക്കും പിഞ്ച് സാങ്കേതികത ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു അത് വളരെ നന്നായി സ്ഥാപിതമായതും നന്നായി അംഗീകരിക്കപ്പെട്ടതും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ സാങ്കേതികതയാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്കിന്റെ സ്കീമാറ്റിക് ഇതുപോലെയാണ് നമുക്ക് നിരവധി തണുത്ത സ്ട്രീമുകൾ ലഭിച്ചുവെന്ന് പറയാം അതായത് കുറഞ്ഞ വിതരണ താപനിലയുള്ളതും അവസാനം വ്യത്യസ്ത താപനിലയിലേക്ക് ചൂടാക്കേണ്ടതുമായ ഈ സ്ട്രീമുകൾ അതുപോലെ വിതരണ താപനില കൂടുതലുള്ള നിരവധി ചൂടുള്ള സ്ട്രീമുകൾ നമ്മൾക്ക് ലഭിച്ചു പക്ഷേ അവ ആത്യന്തികമായി കുറഞ്ഞ താപനിലയിലേക്ക് തണുപ്പിക്കണം എല്ലാ വിതരണ താപനിലകളും തണുത്ത സ്ട്രീമുകൾക്ക് തുല്യമാകണമെന്നില്ല എല്ലാ വിതരണ താപനിലകളും ചൂടുള്ള സ്ട്രീമുകൾക്ക് തുല്യമാകണമെന്നില്ല അതുപോലെ ചൂടുള്ളതും തണുത്തതുമായ സ്ട്രീമുകളുടെ ടാർഗെറ്റ് താപനിലയും ഒരുപോലെയല്ല അതിനാൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് C1 C2 C3 ആണ് ഈ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാധാരണ തണുത്ത സ്ട്രീമുകൾ H1 H2 H3 സാധാരണ ഹോട്ട് സ്ട്രീമുകൾ അതിനാൽ C1 ടാർഗെറ്റ് താപനിലയിലേക്ക് പോകുമ്പോൾ ടാർഗെറ്റ് താപനില കൈവരിക്കുമ്പോൾ അതിനിടയിൽ വ്യത്യസ്ത ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉണ്ടാകും അതിനാൽ ഈ സ്ട്രീം C1 ന്റെ താപനിലയാണ് ക്രമേണ വർദ്ധിക്കുന്നത് പക്ഷേ C1 നുള്ള ടാർഗെറ്റ് താപനില കൈവരിക്കാൻ ആ വർദ്ധനവ് മതിയാകില്ല അതിനാൽ അവസാനം നമുക്ക് ചില ഹോട്ട് യൂട്ടിലിറ്റി ഉൾപ്പെടുത്തണം അതിനാൽ ഓരോ തണുത്ത സ്ട്രീമുകൾക്കും നമുക്ക് കാണാൻ കഴിയുന്ന നിരവധി ഇന്റർമീഡിയറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉണ്ട് അവയെല്ലാം ഒരേ അളവിലുള്ള ഇന്റർമീഡിയറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറുകളായിരിക്കണമെന്നില്ല ആത്യന്തികമായി അവയുടെ താപനില ലക്ഷ്യ താപനിലയിലേക്ക് കൊണ്ടുവരാൻ ഒരുതരം യൂട്ടിലിറ്റി ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ടായിരിക്കണം ചൂടുള്ള സ്ട്രീമുകൾക്കും ഇത് ബാധകമാണ് ഒരു ചൂടുള്ള സ്ട്രീമിന് പെട്ടെന്ന് ടാർഗെറ്റ് താപനില കൈവരിക്കാൻ അത് ചില തണുത്ത സ്ട്രീമുകളിലേക്ക് ചൂട് കൈമാറുകയും എന്നാൽ ആത്യന്തികമായി ടാർഗെറ്റ് താപനില കൃത്യമായി എത്താൻ അവസാനം ചില തണുത്ത യൂട്ടിലിറ്റികളുടെ തണുപ്പിക്കൽ ആവശ്യമായും വന്നേക്കാം ഇപ്പോൾ ഇത് കോമ്പിനേറ്ററിക്സിന്റെ ഒരു പ്രശ്നമാണ് ഈ ചൂടുള്ള സ്ട്രീമുകളെയും തണുത്ത സ്ട്രീമുകളെയും നമ്മൾ എങ്ങനെ പൊരുത്തപ്പെടുത്തുന്നു എന്ന് അതിനാൽ കുറഞ്ഞ അളവിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം യൂട്ടിലിറ്റികളുടെ ഏറ്റവും കുറഞ്ഞ ഉപയോഗവും എങ്ങനെ സാധിക്കും എന്ന് കൂടാതെ കുറഞ്ഞ ചൂട് എക്സ്ചേഞ്ചറുകൾക്ക് വേണ്ടി ഒരു നിയമമുണ്ട് അത് UminN 1 ആണ് N എന്നത് പ്രോസസ്സ് സ്ട്രീമുകളുടെ എണ്ണവും യൂട്ടിലിറ്റികളുടെ എണ്ണവും കൂട്ടുന്നതാണ് അതിനാൽ അവിടെ നിന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ലഭിക്കും മിക്ക കേസുകളിലും നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിനുവേണ്ടിയോ നെറ്റ്വർക്ക് സിന്തസിസിനോ പോകുമ്പോൾ ചില അളവിലുള്ള താപ സംയോജനം സാധ്യമാകുന്നതിനോ അല്ലെങ്കിൽ കുറച്ച് താപ സംയോജനം വ്യക്തമായി നേടിയെടുക്കുന്നതിനോ കഴിയും എന്നാൽ നമുക്ക് ഈ മിനിമം സംഖ്യയിൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല അതിനാൽ ഈ എണ്ണം വർദ്ധിക്കും എന്നാൽ ഈ സംഖ്യ മിനിമം എത്ര എണ്ണം വേണ്ടി വരും എന്ന വിവരം നൽകുന്നു കൂടാതെ ഹീറ്റ് എക്സ്ചേഞ്ചറുകളുടെ എണ്ണം കൈവരിക്കുന്നതിനുള്ള നമ്മളുടെ ലക്ഷ്യം നിറവേറ്റാം ഈ പശ്ചാത്തലത്തിൽ പിഞ്ച് സാങ്കേതികവിദ്യ പ്രയോഗിക്കുന്നതിനായി നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ സിന്തസിസിലേക്ക് പോകാം ഞാൻ ഇതിനെ കുറച്ചിട്ടുള്ള ഒരു പശ്ചാത്തലം നൽകട്ടെ പിഞ്ച് സാങ്കേതിക വിദ്യ യുക്തി അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് ഇത് തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമവും രണ്ടാമത്തെ നിയമവും പിഞ്ച് വിശകലനത്തിനായി നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം പിന്തുടരുന്നു ഒരിക്കലും നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമമോ രണ്ടാമത്തെ നിയമമോ ലംഘിക്കുന്നില്ല വ്യക്തമായും നമ്മൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഈ അടിസ്ഥാന നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ഡിസൈൻ ഫലപ്രദമാകില്ല അതിനാൽ ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ സ്ട്രീമിന്റെയും താപ സംയോജനത്തിന്റെയും ഏറ്റവും മികച്ച ക്രമീകരണം നേടാൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മൾ പിന്തുടരുന്ന വിശകലനത്തിനായി അനന്തമായ ശേഷിയുള്ള ഒരു ചൂടുള്ള യൂട്ടിലിറ്റിയും ഒരു തണുത്ത യൂട്ടിലിറ്റിയും മാത്രമേയുള്ളൂ എന്ന് അനുമാനിക്കുന്നു ഒരു പ്ലാന്റിലെ പ്രായോഗിക സാഹചര്യത്തിൽ നിരവധി യൂട്ടിലിറ്റികൾ ഉണ്ടാകാം ചിലപ്പോൾ തണുപ്പിക്കൽ അന്തരീക്ഷ വായുവിനാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ടുമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം അതിനാൽ അത് പ്ലാന്റിലെ സാധ്യതയാകാം പല സന്ദർഭങ്ങളിലും അതാണ് സാഹചര്യം പക്ഷേ കാര്യങ്ങൾ ലളിതമാക്കുന്നതിനായി നമ്മളുടെ വിശകലനത്തിന് ഒരു ഹോട്ട് യൂട്ടിലിറ്റിയും ഒരു കോൾഡ് യൂട്ടിലിറ്റിയും മാത്രമേയുള്ളൂ എന്ന് അനുമാനിക്കുന്നു അതിനാൽ അവ ഹോട്ട് യൂട്ടിലിറ്റികളുടെയും കോൾഡ് യൂട്ടിലിറ്റികളുടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു ഇത് ഒരു സ്ഥിരതയുള്ള പ്രവർത്തനമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ക്ഷണികമായ കേസ് നമ്മൾ പരിഗണിക്കുന്നില്ല ഈ സ്ട്രീമുകൾ പൊരുത്തപ്പെടുന്നതിന് നിയന്ത്രണമില്ല യഥാർത്ഥ പ്ലാന്റിൽ ഈ സ്ട്രീമുകൾ കാരണം നിയന്ത്രണങ്ങൾ ഉണ്ടാകും കാരണം അവ അടുത്തടുത്ത് ഉണ്ടാകണമെന്നില്ല ഉദാഹരണത്തിന് ചൂടിനെ പുറന്തള്ളേണ്ട ഒരു ചൂടുള്ള സ്ട്രീം നമുക്ക് ഉണ്ടെന്ന് പറയാം പക്ഷേ ചൂട് ഏറ്റെടുക്കേണ്ട ഒരു തണുത്ത സ്ട്രീം അതിൽ നിന്ന് വളരെ അകലെയായിരിക്കും അതിനാൽ ഈ ഉദാഹരണത്തിൽ നമ്മൾ എടുത്ത ചൂടുള്ള പ്രവാഹത്തിനും തണുത്ത പ്രവാഹത്തിനും ഇടയിൽ ചൂട് കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ല ചില പ്രത്യേക സാഹചര്യത്തിൽ ദ്രാവകത്തിന്റെ സ്വഭാവമനുസരിച്ച് 2 ദ്രാവക സ്ട്രീമുകൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനുള്ളിൽ അടുപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുകയില്ല സുരക്ഷയോ അപകടസാധ്യതയോ കണക്കിലെടുത്താണിത് അതിനാൽ ഇത്തരത്തിലുള്ള സാഹചര്യം അവിടെയുണ്ടാകാം അപ്പോൾ എല്ലാ ഹീറ്റ് എക്സ്ചേഞ്ചറുകളും ഒരു ഫേസ് മാറ്റമോ താപ ഉൽപാദനമോ പ്രതികരണമോ ഇല്ലാതെയായിരിക്കണം താപ സംയോജനത്തിനായി നോക്കുമ്പോൾ ഒരു രാസ പ്ലാന്റ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ റിയാക്ടർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് താപ സംയോജനം ഉറപ്പാക്കാം എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യം നമ്മൾ പരിഗണിക്കുന്നില്ല സ്ട്രീമുകളുണ്ടെന്നും ഈ സ്ട്രീമുകൾ ഒറ്റ ഫേസിലാണെന്നും ഒരു ഫേസ് മാറ്റവുമില്ലെന്നും ഞാൻ കരുതുന്നു ഇവയെല്ലാം ഞാൻ അനുമാനങ്ങളായി എടുക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അനുമാനങ്ങൾ വിശകലനത്തിലെ സങ്കീർണ്ണതയിൽ ഉണ്ടാകുന്ന പിഴവുകളിൽ ഇളവ് വരുത്തും എന്നാണ് ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ നേരിട്ടുള്ള കോൺടാക്റ്റിലും കൌണ്ടർ ഫ്ലോയിലുമാണ് അതായത് ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ തീർച്ചയായും ക്രോസ് ഫ്ലോ അല്ലെങ്കിൽ സമാന്തര ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ആയിരിക്കാം എന്നാൽ അവയെല്ലാം കൌണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ ആണെന്ന് നമ്മൾ കരുതുന്നു 2 സ്ട്രീമുകളുടെ നേരിട്ടുള്ള മിശ്രണം ഇല്ലെങ്കിലും അത്തരം തരത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചറുകളും സാധ്യമാണ് കൂടാതെ അവയെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ നെറ്റ്വർക്കിൽ പരിപാലിക്കാനും കഴിയും ഇപ്പോഴത്തെ ചർച്ചയിൽ നമ്മൾ ഇത് ചെയ്യുന്നില്ല അതിനാൽ ഈ പശ്ചാത്തലത്തിൽ നമ്മളുടെ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ സമന്വയത്തെ കുറിച്ചുള്ള പഠനം ആരംഭിക്കും